സ്വതന്ത്ര സ്ഥലത്തെ വൈദ്യുതകാന്തിക തരംഗങ്ങൾ I ഗുണാത്മകമായ ചിത്രീകരണം മുമ്പത്തെ പ്രഭാഷണത്തിൽ തരംഗ സമവാക്യങ്ങൾ കൈകാര്യം ചെയ്തതിനാൽ വൈദ്യുതകാന്തിക തരംഗങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കാണാൻ നമ്മൾ ഇപ്പോൾ തയ്യാറാണ് നമ്മൾ നമ്മുടെ ചർച്ച വളരെ ലളിതമാക്കുകയും സമതല തരംഗങ്ങൾ പരിഗണിക്കുകയും ചെയ്യുന്നു അതിനർത്ഥം ഒരു ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു തരംഗത്തിൻറെ ഒരു പ്രതലത്തിലുള്ള വ്യാപ്തി സമാനമായിരിക്കും ഇവിടെ ഞാൻ x ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു തരംഗം എടുക്കാൻ പോകുന്നു അതിനാൽ ഞാൻ y ദിശയിൽ E യും z ദിശയിൽ B യും എടുക്കുന്നു സമയവും സ്ഥലവും അനുസരിച്ച് അവ വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിൽ അവ പരസ്പരം നിലനിർത്താൻ കഴിയുമെന്ന് കാണിക്കാവുന്നതാണ് അതിനാൽ ഇപ്പോൾ E x ൽ ആണെന്ന് നമുക്ക് പറയാം കൂടാതെ നിങ്ങൾ കുറച്ച് ദൂരം പോകുമ്പോൾ E x പ്ലസ് ഡെൽറ്റ x ആയി മാറുന്നു ഇവിടെ E y ദിശയിലാണ് അതുപോലെ B z ദിശയിലാണ് അതിനാൽ നമുക്ക് ഇവിടെ z ഇടാം നിങ്ങൾ കുറച്ച് അകലെ പോകുമ്പോൾ അത് B z x പ്ലസ് ഡെൽറ്റ x ആയി മാറുന്നു അത് സമയത്തിനനുസരിച്ച് മാറുന്നു ഇപ്പോൾ ഫാരഡെയുടെ നിയമത്തിൽ നിന്ന് എനിക്കറിയാം കേൾ E എന്നാൽ മൈനസ് dB by dt ക്ക് തുല്യമാണെന്ന് പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരു ചതുരം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ദീർഘചതുരം എടുക്കുകയാണെങ്കിൽ കറുത്ത ആരോകളാൽ കാണിച്ചിരിക്കുന്നതുപോലെ എതിർ ഘടികാരദിശയിൽ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ നീങ്ങുകയോ ചെയ്താൽ എനിക്ക് അറിയാം ഫാരഡെയുടെ നിയമം അനുസരിച്ച് എനിക്ക് ഇൻറഗ്രൽ E ഡോട്ട് dl എന്നാൽ മൈനസ് d b by d t ഇൻറഗ്രൽ B ഡോട്ട് d s ന് തുല്യമായിരിക്കും ഇവിടെ ds ഏരിയയാണ് സ്ലൈഡ് സമയം 0210 കാണുക dl ddtB dS ഇപ്പോൾ E എന്നത് y ദിശയിൽ മാത്രമുള്ളതിനാൽ ഇതിലെ തിരശ്ചീന രേഖകൾ ലൈൻ ഇൻ്റഗ്രലിന് സംഭാവന നൽകുന്നില്ല ഈ ദീർഘചതുരത്തിന്റെ വീതി ഡെൽറ്റ y ആയിരിക്കട്ടെ എന്നിട്ട് ഞാൻ മുമ്പത്തേതിലേക്ക് പോകാൻ പോകുന്നു ഈ സ്റ്റോക്സിന്റെ സിദ്ധാന്തപ്രകാരം ഇടത് വശത്തെ കറുത്ത വരയിൽ നിന്ന് നെഗറ്റീവ് ദിശയിൽ x തവണ ഡെൽറ്റ y യിൽ എനിക്ക് E y ലഭിക്കുന്നു കൂടാതെ വലതുവശത്ത് മുകളിലേക്കുള്ള ദിശയിൽ E y x ഡെൽറ്റ y പ്ലസ് പാർഷ്യൽ E y by പാർഷ്യൽ x ഡെൽറ്റ x ഡെൽറ്റ y എന്ന് ലഭിക്കുന്നു ഇത് ലൈൻ ഇന്റഗ്രൽ ആണ് ഇത് B തവണ ഡെൽറ്റ x ഡെൽറ്റ y യുടെ മൈനസ് പാർഷ്യൽ d by പാർഷ്യൽ d t ക്ക് തുല്യമാകും ഇത് ഇന്റഗ്രൽ ചിഹ്നത്തിനുള്ളിൽ അല്ലാത്തതുകൊണ്ട് എനിക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയി എഴുതാം ഇനി നമുക്ക് കുറച്ച് പദങ്ങൾ ഒഴിവാക്കാം ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും പദം ഒഴിവാക്കാം അപ്പോൾ എനിക്ക് പാർഷ്യൽ E y by പാർഷ്യൽ x എന്നത് മൈനസ് പാർഷ്യൽ d B by പാർഷ്യൽ d t ക്ക് തുല്യമാകും ഇത് z ദിശയിൽ ഭാഗിക t യിലാണ് കാരണം ഡെൽറ്റ x ഡെൽറ്റ y എന്നീ രണ്ട് പദങ്ങളും ഒഴിവാക്കുന്നു EyxyEyxyEy∂xxy ∂tBxy Ey∂x Bz∂t അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് x ദിശ y ദിശ z ദിശ എന്നിവയാണ് ഇവിടെ E ഈ വഴി പോകുന്നതും B ഈ വഴി പോകുന്നതും ആണ് തരംഗം വലത്തേക്ക് ആണ് സഞ്ചരിക്കുന്നത് അത് എങ്ങനെയാണ് വലത്തേക്ക് നീങ്ങുന്നതെന്ന് നമുക്ക് വീണ്ടും കാണാം കൂടാതെ എനിക്ക് പാർഷ്യൽ E y by പാർഷ്യൽ x എന്നാൽ മൈനസ് പാർഷ്യൽ B z by പാർഷ്യൽ t കിട്ടുന്നു അത് ഒരു സമവാക്യമാണ് നമുക്ക് ഇപ്പോൾ മറ്റ് സമവാക്യം പ്രയോഗിക്കാം അത് എനിക്ക് B യുടെ കേൾ mu 0 എപ്സിലോൺ 0 dE by dt ക്ക് തുല്യമാണ് ഇത് ഡിസ്പ്ലേസ്മെന്റ് കറന്റിൽ നിന്നാണ് വരുന്നതെന്ന് ഓർക്കുക ഇതിനായി ഞാൻ ഇവിടെ xz പ്രതലത്തിൽ ഒരു ദീർഘചതുരം എടുക്കുകയും അതിനെ എതിർ ഘടികാരദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യും വീണ്ടും ഇത് എന്റെ x ദിശയാണെന്ന് ഓർക്കുക ഇതാണ് എന്റെ y ദിശ ഇതാണ് എന്റെ z ദിശ കൂടാതെ ഈ ദൂരം ഡെൽറ്റ x ആണ് ഇത് ഡെൽറ്റ z ആയിരിക്കും ഇപ്പോൾ സ്റ്റോക്സ് സിദ്ധാന്തം എനിക്ക് ഇന്റഗ്രേഷൻ B ഡോട്ട് d l എന്നാൽ mu 0 എപ്സിലോൺ 0 d by d t ഇന്റഗ്രൽ E ഡോട്ട് d s എന്ന നൽകുന്നു മുൻപ് ചെയ്തതു പോലെ B dot dl എന്നാൽ x ൽ B ആകും കൂടാതെ അത് z ന്റെ അതേ ദിശയിലായിരിക്കും അതിനാൽ ഇത് ഡെൽറ്റ z ആയിരിക്കും X ആക്സിസിന് സമാന്തരമായി വരുന്ന വരികൾ ഇതിലേക്ക് ഒന്നും സംഭാവന ചെയ്യുന്നില്ല കാരണം B എന്നത് അതിന് ലംബം ആയിരിക്കും ഇത് മൈനസ് x ലെ B ഓഫ് z പ്ലസ് ഡെൽറ്റ x എന്നതിനെ എനിക്ക് B x പ്ലസ് പാർഷ്യൽ B z ഓവർ പാർഷ്യൽ x ഡെൽറ്റ x ഗുണനം ഡെൽറ്റ z എന്ന് എഴുതാം കൂടാതെ ഇത് mu 0 epsilon 0 dE dt ക്ക് തുല്യമാകും ഇവിടെ E y ദിശയിലാണ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എഴുതാം അത് തവണ ഡെൽറ്റ s ഇത് ഡെൽറ്റ x ഡെൽറ്റ z ആണ് വീണ്ടും ചില പദങ്ങൾ ഒഴിവാക്കാൻ പോകുന്നു ഈ പദം ഇതോടെ ഒഴിവാകും ഡെൽറ്റ x ഡെൽറ്റ z ഇതോടൊപ്പം ഒഴിവാക്കുന്നു അങ്ങനെ എനിക്ക് ഈ സമവാക്യം മൈനസ് d B z dx എന്നാൽ mu 0 എപ്സിലോൺ 0 d E y dt ക്ക് തുല്യമാണ് എന്ന് ലഭിക്കുന്നു

dl00ddtE ds Bzxz BzxBz∂xxz00Ey∂txz Bz∂x00Ey∂t അതിനാൽ നമുക്ക് ലഭിച്ച രണ്ട് സമവാക്യങ്ങൾ B z ദിശയിലേക്ക് പോകുന്ന ഈ E y ആണ് നമ്മൾ നേടിയത് പാർഷ്യൽ E y പാർഷ്യൽ x എന്നാൽ മൈനസ് പാർഷ്യൽ B z പാർഷ്യൽ t ക്ക് തുല്യമാണ് അത് ഒരു സമവാക്യമാണ് മറ്റ് സമവാക്യം പാർഷ്യൽ ബി z ഓവർ പാർഷ്യൽ x എന്നാൽ മൈനസ് mu 0 എപ്സിലോൺ 0 പാർഷ്യൽ E y പാർഷ്യൽ t എന്നതാണ് ഈ രണ്ട് സമവാക്യങ്ങളിൽ നിന്ന് ഈ ഫീൽഡുകളെക്കുറിച്ച് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ d E y by d x എന്നാൽ മൈനസ് പാർഷ്യൽ B z പാർഷ്യൽ t ക്ക് തുല്യമാണ് എന്ന സമവാക്യത്തിൽ നിന്ന് തരംഗം സഞ്ചരിക്കുന്നുണ്ടോ എന്നും ഇത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് 1 ഓവർ v പാർഷ്യൽ E y പാർഷ്യൽ t എന്നതിനു തുല്യമാണോ എന്നും നമുക്ക് കാണാം ഇവിടെ v എന്നത് തരംഗത്തിന്റെ വേഗതയാണ് കൂടാതെ ഇത് ഉടൻ തന്നെ B z പ്ലസ് അല്ലെങ്കിൽ മൈനസ് E y ഓവർ v ക്ക് തുല്യമായിരിക്കണം എന്ന് നിങ്ങളോട് പറയുന്നു വൈദ്യുതകാന്തിക തരംഗങ്ങൾ വേഗത c ഉപയോഗിച്ച് സഞ്ചരിക്കുന്നുവെന്ന് എനിക്കറിയാം അതിനാൽ നമുക്ക് ഇത് c ഇന്ന് എഴുതാം അല്ലെങ്കിൽ E y ഓവർ c ആയി സൂചിപ്പിക്കാം ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്ന തരംഗത്തിനാണ് പ്ലസ് ചിഹ്നം കൂടാതെ മൈനസ് ചിഹ്നം വലതുവശത്തേക്കുള്ള തരംഗത്തിനാണ് അതിനാൽ തരംഗം ഇടത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ മൈനസ് B z എന്നാൽ E y ഓവർ c ക്ക് തുല്യമായിരിക്കും അതിനാൽ തരംഗം ഇടത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ B നെഗറ്റീവ് z ദിശയിലേക്ക് ആയിരിക്കും മറുവശത്ത് എനിക്ക് E y ഓവർ c ക്ക് തുല്യമായ B z ഉണ്ടെങ്കിൽ ഒരു തരംഗം വലതുവശത്തേക്ക് സഞ്ചരിക്കും അപ്പോൾ E ക്രോസ് B എനിക്ക് തരംഗത്തിന്റെ ദിശ നൽകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ രണ്ട് തരംഗങ്ങളും ഈ രണ്ട് സമവാക്യങ്ങളും എങ്ങനെ സംയോജിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം Ey∂x Bz∂t±1vEy∂tvതരംഗത്തിന്റെ വേഗത Bz±Eyv±Eyc വലതുവശത്തേക്ക് സഞ്ചരിക്കുന്ന തരംഗങ്ങൾ BzEyc BxEyc അതിനാൽ എന്റെ പക്കലുള്ള സമവാക്യങ്ങൾ പാർഷ്യൽ E y ഓവർ പാർഷ്യൽ x എന്നാൽ മൈനസ് d B z ഓവർ d t ആണെന്നും പാർഷ്യൽ B z ഓവർ പാർഷ്യൽ x എന്നാൽ മൈനസ് mu 0 എപ്സിലോൺ 0 d E by d t എന്നുമാണ് ഞാൻ ഈ ആദ്യ സമവാക്യം എടുത്ത് x നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് d സ്ക്വയർ E y ഓവർ d x സ്ക്വയർ എന്നാൽ മൈനസ് d by d t ഓഫ് d B z by d x എന്ന് ലഭിക്കും ഞാൻ x t എന്നിവ മാറ്റി അപ്പോൾ അത് പ്ലസ് mu 0 എപ്സിലോൺ 0 d സ്ക്വയർ E y ഓവർ d t സ്ക്വയർ എന്ന് ലഭിക്കും ഓർക്കുക ഇതാണ് തരംഗ സമവാക്യം 1 ഓവർ വേഗത c സ്ക്വയർ mu 0 എപ്സിലോൺ 0 ന് തുല്യമാണ് അതിനാൽ നമ്മൾ എന്താണ് ഇതുവരെ പറഞ്ഞത് എനിക്ക് സമയത്തിലും സ്ഥലത്തിലും വ്യത്യാസമുള്ള E B എന്നീ രണ്ട് ലംബമായ ഫീൽഡുകൾ ഉണ്ടെങ്കിൽ അവ പരസ്പരം സഞ്ചരിക്കാനും നിലനിർത്താനും കഴിയും അവ 1 ഓവർ സ്ക്വയർ റൂട്ട് mu 0 എപ്സിലോൺ 0 ന് തുല്യമായ വേഗത c ഉപയോഗിച്ച് സഞ്ചരിക്കുന്നു 2Eyx2 ∂tBz∂x002Eyt2 അടുത്ത പ്രഭാഷണത്തിൽ ഈ തരംഗ സമവാക്യം കൂടുതൽ വിശദമായി മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ നിന്ന് നേരിട്ട് നമുക്ക് ലഭിക്കും